ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ പ്രഥമഃ ലെക്ച്ചറിലേക്ക് സ്വാഗതം എന്താണ് മെക്കാനോബയോളജി പേരിൽ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇവിടെ ഒരു മെക്കാനോ കംപോണനന്റും ഒരു ബയോളജി കംപോണനന്റുമുണ്ട് ഈ വിഷയത്തിൽ അല്പം മെക്കാനിക്സിന്റെ സ്വാധീനമുണ്ട് എന്നാണ് മെക്കാനോ എന്ന ഘടകം ചൂണ്ടിക്കാണിക്കുന്നത് മെക്കാനോബയോളജി എന്ന പദത്തിനെ നമുക്ക് രണ്ടായി വിഭജിക്കാം ഒന്ന് മെക്കാനിക്സ് എന്നും മറ്റൊരു ടെർമ് ബയോളജി എന്നതുമാണ് മേല്പറഞ്ഞ സമീപനത്തിലൂടെ നമുക്ക് ബയോളജി എന്ന വിഷയത്തിൽ ഫിസിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സിന് എത്രമാത്രം പ്രസ്കതിയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബയോളജിയിൽ മെക്കാനിക്സിനുള്ള പ്രാധാന്യമെന്താണ് ജീനോമിക്സിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നമുക്ക് വ്യത്യസ്ത പ്രോട്ടീനുകളെ എൻകോഡ് ചെയ്യുന്ന ആയിരക്കണക്കിന് ജീനുകളെ പറ്റി കൃത്യമായ ധാരണയുണ്ട് എന്നാൽ മേല്പറഞ്ഞ പ്രോട്ടീനുകളെല്ലാം എപ്പോഴും കോശങ്ങൾക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല എന്നതാണ് വസ്തുത ഇവിടെ ഒരു സ്പേഷ്യോ ടെമ്പറൽ റെഗുലേഷൻ പ്രവർത്തനത്തിലുണ്ട് ആയതിനാൽ അവ എവിടെയാണ് നിലകൊള്ളുന്നത് ആരോടൊക്കെയാണ് സംവദിക്കുന്നത് ഏതൊക്കെ പ്രക്രിയകളിലാണ് അവർ മധ്യസ്ഥം നിൽക്കുന്നത് എന്നൊക്കെ മനസിലാക്കാൻ സാധ്യമായാൽ നമുക്ക് പ്രോട്ടീനുകൾ വിവിധ സെല്ലുലാർ പ്രക്രിയകളിൽ എങ്ങനെ പങ്കുകൊള്ളുന്നു എന്ന് വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇമ്മ്യൂണോളജി പഠനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുപരിചിതമായ ഒന്നാണ് ന്യൂട്രോഫിലുകൾ ഇവ പ്രതിരോധത്തിന്റെ ഭാഗമായി ശരീരത്തിൽ പ്രവേശിക്കുന്ന ബാക്ടീരിയ പോലുള്ള അന്യദ്രവ്യങ്ങളെ നശിപ്പിച്ചുകളയുന്നു മേല്പറഞ്ഞ പ്രവർത്തനം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിഴുങ്ങൽ പ്രക്രിയയാണ് ഇതിന്റെ രസകരമായ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് അതായത് ഈ കാണുന്ന പോലെ ഒരു ചെറിയ ബാക്ടീരിയ തൊട്ടടുത്ത് ഒരു ന്യൂട്രോഫിൽ ചുറ്റും ഏതാനും RBC കൾ ഇവയുടെയെല്ലാം പൊതുവായ ചിത്രം ഏതാണ്ട് ഇതുപോലിരിക്കും ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ തൽക്ഷണം സംഭവിക്കുന്ന ഒന്നല്ല വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും കാരണം ബാക്ടീരിയ ന്യൂട്രോഫിലിൽ നിന്നും രക്ഷനേടാനുള്ള ശ്രമത്തിലും മറിച്ച് ന്യൂട്രോഫിൽ ബാക്റ്റീരിയയെ പിന്തുടരാനുള്ള പരിശ്രമത്തിലുമായിരിക്കും ആയതിനാൽ ബാക്റ്റീരിയയുടേതോ ന്യൂട്രോഫിലിന്റെയോ സ്ഥാനം കൃത്യതയോടെ നിർവചിക്കുക സാധ്യമല്ല അക്ഷരാർത്ഥത്തിൽ മേല്പറഞ്ഞ പ്രക്രിയ ഒരു കള്ളനും പോലീസും കളിയ്ക്ക് സമാനമാണ് ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ബാക്ടീരിയയുടെ സാന്നിധ്യം ന്യൂട്രോഫിലുകൾ തിരിച്ചറിയുന്നത്തിലൂടെ ഈ പ്രക്രിയയ്ക്ക് ആരംഭം കുറിക്കുന്നു ബാക്റ്റീരിയയുടെ സാമീപ്യം ന്യൂട്രോഫിലിൽ കീമോടാക്സിസിന് പ്രേരകമാകുന്നു യഥാർത്ഥത്തിൽ ബാക്ടീരിയ തന്നെയാണ് കീമോകൈനുകളെ ഉത്പ്പാദിപ്പിക്കുന്നത് ഇവ ശ്രദ്ധയിൽ പെടുന്ന പക്ഷം ന്യൂട്രോഫിലുകൾ ഈ രാസമണ്ഡലത്തിന്റെ ദിശയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു ഈ സമയം ന്യൂട്രോഫിലിന്റെ കോശഘടനയ്ക്ക് കാര്യമായ വ്യതിയാനം സംഭവിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് മേല്പറഞ്ഞ ബയളോജിക്കൽ പ്രക്രിയയിൽ തന്നെ ഡൈനാമിക്സ് അഥവാ മെക്കാനിക്സ് പ്രകടമാകുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ മെക്കാനൊബയോളജി ഒരു ഇന്റർ ഡിസിപ്ലിനറി സമീപനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു പരമ്പരാഗത ബയോളജിസ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള തന്മാത്രകളാണിവിടെ പ്രവർത്തനത്തിലുള്ളത് എന്നതാണ് പ്രസക്തമായ ചോദ്യം എന്നാൽ ഒരു ഫിസിസിസ്റ്റിനെ സംബന്ധിച്ച് അവയുടെ ആകൃതിക്ക് പ്രാധാന്യമുണ്ടോ എന്ന ചോദ്യമായിരിക്കും അദ്ദേഹത്തെ അലട്ടുന്നത് അതായത് ഈ കാണുന്ന രൂപത്തിൽ ഉള്ള ബാക്ടരീയേക്കാളും ഒന്നോ രണ്ടോ മൈക്രോൺ നീളമുള്ള അല്പം ഉരുണ്ട ഒരു ബാക്റ്റീരിയയാണെങ്കിൽ മേല്പറഞ്ഞ ആകൃതിക്ക് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കാണുന്നതിലായിരിക്കും ഒരു ഫിസിസിസ്റ്റിന് താല്പര്യമുണ്ടാകുക തന്മാത്രയുടെ ആകൃതി തീർച്ചയായും ഒരു പ്രധാനഘടകം തന്നെയാണ് ഈ കാണുന്ന രൂപഘടനയുള്ള ഒരു ബാക്റ്റീരിയയെ ഫാഗോസൈറ്റോസ് ചെയ്യാൻ ഒരു ന്യൂട്രോഫിലിന് പ്രയാസമാണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും എന്നാൽ ഈ കാണുന്ന മാതൃകയിലുള്ള ബാക്റ്റീരിയയാണെങ്കിൽ ന്യൂട്രോഫിലിന് മേല്പറഞ്ഞ പ്രക്രിയ എളുപ്പം സാധ്യമാകുന്നു ഫാഗോസൈറ്റോസ് ചെയ്യാനുള്ള തന്മാത്രയുടെ രൂപഘടന ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയയെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്നത് തീർത്തും കൌതുകകരമായ ഒരു വസ്തുതയാണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ സംഭവിക്കണമെങ്കിൽ എത്രമാത്രം ഫോഴ്സ് ചെലുത്തണം എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിച്ചേക്കാം ഇവിടെ നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്താം അതിനായ് ഒരു വെസിക്കിൾ എടുക്കുന്നു അതിന്റെ ഫാഗോസൈറ്റോസിസ് ഡൈനാമിക്സ് അടിസ്ഥാനപ്പെടുത്തി ന്യൂട്രോഫിലിന്റെ സഹായത്തോടെ പിന്തുടരുന്നു വെസിക്കിളിന്റെ വലുപ്പം ദൃഢത എന്നീ ഘടകങ്ങൾ ഫാഗോസൈറ്റോസിസ് ഡൈനാമിക്സിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ കൈവശം ഒരു പോളിസ്റ്റൈറീൻ ബീഡാണ് ഉള്ളത് എങ്കിൽ അതിന്റെ ഫാഗോസൈറ്റോസിസ് ഡൈനാമിക്സ് മേല്പറഞ്ഞ വെസിക്കിളിൽ നിന്നും വിഭിന്നമായിരിക്കും ഈ ബീഡിന്റെ വലുപ്പവും ദൃഢതയും അധികമായതിനാൽ സ്വാഭാവികമായും ന്യൂട്രോഫിൽ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നതിൽ പരാജയപ്പെടും എന്നതാണ് വസ്തുത ഇനി നമുക്ക് കൺഫൈൻമെന്റ് എന്നാൽ എന്താണെന്നും അതിന്റെ പ്രഭാവത്തെ പറ്റിയും വിശദമായി പഠിക്കാം ഇവിടെ ഇൻ വൈവോവായി നമുക്ക് എംപ്റ്റി സ്പേസുകളൊന്നും കാണാൻ സാധിക്കില്ല പോർ സൈസ് ഒന്ന് മുതൽ മുപ്പത് മൈക്രോൺ വരെ ദൈർഘ്യമുള്ള ഒരു ECM ലോ സ്ട്രോമയിലോ വരെ ഇത് സാധ്യമാണ് അങ്ങനെയിരിക്കെ ബാക്റ്റീരിയകളെ മേല്പറഞ്ഞ മെട്രിക്സിലൂടെ ട്രാക്കുചെയ്യുമ്പോൾ കോശങ്ങൾ വളരെ ബദ്ധപ്പെട്ട് കൺഫൈൻമെന്റിലൂടെ കടന്നുപോകേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാകും ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ സംഭവിക്കുന്നത് അത് പോലെ തന്നെ ഈ കീമോടാക്സിസ് എങ്ങനെ സാധ്യമാകുന്നു എന്നെല്ലാം നമുക്ക് വിശദമായി തന്നെ നോക്കാം കീമോകൈനിന്റെ സാന്ദ്രതയെ ആധാരമാക്കിയാണ് ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയ എത്ര വേഗത്തിൽ പൂർത്തിയാകുന്നു എന്ന് നിർണയിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഘടനാപരമായ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കുവാൻ നമുക്ക് മെക്കാനൊബയോളജിയുടെ സഹായം തേടാവുന്നതാണ് ഒരു പക്ഷിയുടെ കാര്യം ഉദാഹരണമായെടുക്കാം അതിന്റെ വിങ് ബോൺസ് അഥവാ ചിറകിലെ അസ്ഥികളാണിത് ഈ കാണുന്ന അസ്ഥിയുടെ ഭാഗത്തിൽ സുഷിരങ്ങളേതുമില്ല പക്ഷെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ തേനീച്ച കൂടിന് സമാനമായ സുഷിരങ്ങളുണ്ട് ഒരേ സമയം ദൃഢവും എന്നാൽ ഭാരക്കുറവുള്ളതുമായ അസ്ഥികൾ ഇതിലൂടെ പക്ഷിക്ക് ലഭ്യമാകുന്നു എന്നതാണ് സത്യം പരസ്പരവിരുദ്ധങ്ങളായ രണ്ട് ഘടകങ്ങളെ നാം പലപ്പോഴും വസ്തുവിന്റെ സവിശേഷത നിർണയിക്കുന്നതിൽ ഉപയോഗപ്പെടുത്താറുണ്ട് ഉദാഹരണത്തിന് വസ്തുവിന്റെ ദൃഢതയും ഭാരവും പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ സാധാരണ ദൃഢതയേറിയ വസ്തുക്കളെല്ലാം പൊതുവെ ഭാരമേറിയവയാണ് എന്നാൽ ഒരു പക്ഷിയുടെ ചിറകിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ അതിന് പറക്കുക അസാധ്യമാകും ഒരേ സമയം ദൃഢവും എന്നാൽ ഭാരക്കുറവുള്ളതുമായ അസ്ഥികളാണ് അതിനെ പറക്കാൻ സജ്ജമാക്കുന്നത് ഇങ്ങനെ ഒക്കെയാണെങ്കിലും വസ്തുവിന്റെ ഘടനയും പ്രവർത്തനവും പരസ്പരം ഇഴചേർന്നിരിക്കുന്നവയാണ് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം ഇവിടെ ഞാൻ സെൽ സോർട്ടറിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത് എന്താണ് ഈ സെൽ സോർട്ടർ ഇവയുടെ പ്രവർത്തനമെന്താണ് നിങ്ങൾ FACS നെ കുറിച്ച് കേട്ടിട്ടില്ലേ FACS എന്നാൽ ഫ്ലൂറസെന്സ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കോശങ്ങളുടെ രണ്ട് പോപ്പുലേഷൻസ് ഉണ്ടെന്ന് കരുതുക ഇവയുടെ ഉപരിതലത്തിലുള്ള മാർക്കറുകൾ വിഭിന്നമാണ് മേല്പറഞ്ഞ കോശങ്ങളുടെ സബ് പോപ്പുലേഷനുകളെ വ്യത്യസ്തമായ സെൽ സർഫസ് മാർക്കറുകൾ ഉപയോഗിച്ച് ലേബൽ ചെയ്യാവുന്നതാണ് ഇവിടെ ഫ്ലൂറസെൻസിന്റെ സഹായത്തോടെ പോപ്പുലേഷനുകളെ നമുക്ക് തരംതിരിക്കാം സർഫസ് മാർക്കറിന്റെ പ്രൊഫൈലിനെ പറ്റി കാര്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ മറിച്ച് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമാണെങ്കിൽ നിങ്ങളുടെ കൈവശം ഇവയുടെ ഡിഫോർമബിലിറ്റിയെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ലഭ്യമായത് എന്ന് സാരം

ഉദാഹരണത്തിന് ക്യാൻസറിൽ കാണുന്ന CTCs അഥവാ സർക്യൂലേറ്റിങ് ട്യൂമർ സെൽ പോപ്പുലേഷന്റെ കാര്യം തന്നെ എടുക്കാം മറ്റ് രക്താണുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെ നിരക്ക് വളരെ തുച്ഛമാണ് അങ്ങനെയെങ്കിൽ രക്തത്തിൽ ചംക്രമണം ചെയ്യുന്ന മേല്പറഞ്ഞ ട്യൂമർ സെല്ലുകളെ നാം എങ്ങനെ വേർതിരിക്കുമെന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം ഇവയുടെ ഡിഫോർമബിലിറ്റി അല്ലെങ്കിൽ വലുപ്പം ആധാരമാക്കി വേർതിരിക്കുന്ന രീതിയാണ് പൊതുവായി ഒട്ടുമിക്ക ഗവേഷകരും സ്വീകരിക്കുന്നത് അതിനായി എന്റെ പക്കൽ ഒരു ഉപകരണമുണ്ട് ഇതാണ് മേല്പറഞ്ഞ ഉപകരണം ഈ കാണുന്നത് രണ്ട് പില്ലറുകളാണ് പില്ലറുകളുടെ ഡയമീറ്റർ d യിലും പിന്നെ ഇവ തമ്മിലുള്ള സ്പേസിങ്ങിലും മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് സ്പേസിങ് അഥവാ വിടവിന്റെ അകലമെന്നത് യഥാർത്ഥത്തിൽ ഡിസ്റ്റൻസിന്റെ ഫങ്ഷനാണ് ആയതിനാൽ ദൂരം കുറയുമ്പോൾ സ്പേസിങും ഗണ്യമായി കുറയുന്നു ഇനി നമ്മുടെ മുൻപിൽ വലിയ തോതിലുള്ള രണ്ട് സെൽ പോപുലേഷനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കൂട്ടം കോശങ്ങൾ വലുതുംദൃഢതയേറിയതും മറ്റേത് മൃദുവും അല്പം മാത്രം ദൃഢതമുള്ളതാണെന്ന് കരുതുക ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ ഇടത്തരം വലുപ്പവും ദൃഢതയുമുള്ള കോശങ്ങളും ഉണ്ട് ഹൊറിസോണ്ടൽ ദിശയിൽ കോശങ്ങൾ ഒഴുകുന്നിടത്താണ് നമ്മൾ മേല്പറഞ്ഞ ഉപകരണം വെക്കുന്നത് ഇവിടെ സെല്ലുകളുടെ വലുപ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവിടെ r1 r2 r3 എന്നിങ്ങനെ റേഡിയസുകളുള്ള മൂന്ന് ലെയറുകളാണ് ഉള്ളത് s1 ന്റെ മൂല്യം r1 നേക്കാൾ s1r1 കുറവാണെങ്കിൽ കോശത്തിന് ദൃഢതയുണ്ടെന്നും ആയതിനാൽ ആദ്യത്തെ ലെയറിൽ തന്നെ അത് കുടുങ്ങികിടക്കുകയും ചെയ്യുന്നു ശരാശരി അളവുള്ള കോശങ്ങൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാളിയിൽ കുടുങ്ങുകയും ചെറിയവ ഏത് പാളിയിലും തട്ടി നിൽക്കാതെ എളുപ്പത്തിൽ കടന്നുപോകുകയും ചെയ്യുന്നു ഡിഫോർമബിലിറ്റിയിലോ വലുപ്പത്തിലോ വ്യത്യാസമുള്ള ഒന്നിലധികം സെൽ പോപ്പുലേഷനുകൾ ഉണ്ടെങ്കിൽ അവയെ മേല്പറഞ്ഞ രീതിയിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും ഇൻ വൈവോ സാഹചര്യങ്ങളിൽ കോശങ്ങൾ എങ്ങനെ ഫോഴ്സുകളെ കണ്ടെത്തുന്നു അവയോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നതാണ് മെക്കനോബയോളജി എന്ന പഠന മേഖല പ്രധാനമായും ഉറ്റുനോക്കുന്നത് എപ്രകാരമാണ് ഫോഴ്സുകളുടെ കൈമാറ്റം സംഭവിക്കുന്നത് സെൽസിന്റെയും ടിഷ്യൂസിന്റെയും മെക്കാനിക്കൽ ഗുണഗണങ്ങൾ അവയുടെ പ്രവർത്തനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ വിവിധ രോഗാവസ്ഥകൾ ഉടലെടുക്കുമ്പോൾ എപ്രകാരം ഇവയ്ക്ക് രൂപഭേദം സംഭവിക്കുന്നു എന്നും നമുക്ക് ഇതിലൂടെ കണ്ടെത്താവുന്നതാണ് ഫിസിയോളജിയിലും രോഗാവസ്ഥകളെ കുറിച്ചുള്ള പഠനങ്ങളിലും ഈ മേഖലയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം അംശമുൾകൊള്ളുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി ശാഖയാണിത് മേല്പറഞ്ഞ കോഴ്സിലൂടെ മെക്കാനോ ട്രാൻസ്ഡ്ക്ഷൻ എന്ന പ്രക്രിയയുടെ ബയോഫിസിക്കൽ ബയോ എഞ്ചിനീയറിംഗ് എന്നീ വശങ്ങളിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കോശങ്ങൾ എപ്രകാരം ഫിസിക്കൽ ഫോഴ്സുകളെ തിരിച്ചറിയുന്നു എങ്ങനെയാണ് അവയുടെ സബ് സെല്ലുലാർ ബയോകെമിസ്ട്രിയിയിലും സെല്ലുലാർ ബിഹേവിയറിലും വ്യതിയാനം സംഭവിക്കുന്നത് എന്നെല്ലാം നമ്മൾ ഇവിടെ വിശദമായി ചർച്ച ചെയ്യും കോശങ്ങളുടെ ഫോഴ്സ് മാനിപുലേഷൻ മെക്കാനിക്കലായ സവിശേഷതകൾ എന്നിവ അളന്ന് തിട്ടപ്പെടുത്താൻ ഉതകുന്ന നൂതന സാങ്കേതികവിദ്യകളെക്കുറിച്ചും സ്റ്റം സെല്ലുകളുടെ വിധി നിയന്ത്രിക്കുന്നതിലും ബന്ധപ്പെട്ട രോഗാവസ്ഥകളിൽ മെക്കാനോ ട്രാൻസ്ഡ്ക്ഷൻ എന്ന പ്രക്രിയക്കുള്ള സാധ്യതകളും നമ്മൾ മേല്പറഞ്ഞ ചർച്ചയിൽ ഉൾകൊള്ളിക്കുന്നതാണ് ക്യാൻസർ മസ്ക്യൂലർ ഡയസ്ട്രോഫി അതിറോസ്ക്ളീറോസിസ് എന്നീ മൂന്ന് രോഗാവസ്ഥകളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ കോഴ്സ് പൂർണതോതിൽ ഗവേഷണത്തിൽ അധിഷ്ടിതമാണ് മേല്പറഞ്ഞത് പോലെ ഈ കോഴ്സ് ഗവേഷണ പ്രബന്ധങ്ങളിൽ ഊന്നിയാണ് മുന്നോട്ട് ചരിക്കുന്നത് ആയതിനാൽ പഠനത്തിന് ആവശ്യമായ സാമഗ്രികളിൽ ഭൂരിഭാഗവും നിങ്ങൾ പ്രത്യേകമായി ഗവേഷണ പ്രബന്ധങ്ങൾ ഡൌൺലോഡ് ചെയ്തുതന്നെ പഠിക്കേണ്ടവയാണ് കോഴ്സിന്റെ കാലാവധി തീരുമ്പോഴേക്കും നിങ്ങൾ സുമാർ 20 പ്രബന്ധങ്ങളെങ്കിലും വായിച്ചിരിക്കണം മാത്രമല്ല ബ്രൂസ് ആൽബർട്ട് കാർപ് അല്ലെങ്കിൽ ലോഡിഷ് പോലുള്ള ഗ്രന്ഥകാരന്മാരുടെ പുസ്തകങ്ങളും റഫർ ചെയ്യാവുന്നതാണ് അതുപോലെ ഫിസിക്സിന്റെ വീക്ഷണകോണിൽ നിന്ന് ജീവശാസ്ത്രത്തെ കുറിച്ച് വിവരിക്കുന്ന ഫിസിക്കൽ ബയോളജി ഓഫ് സെൽ എന്ന റോബ് ഫിലിപ്പ് കൊണ്ടെവ് ജൂലി തെറിയറ്റ് എന്നിവരുടെ ഗ്രന്ഥവും പഠനം രസകരമാക്കാൻ ഉതകുന്നവയാണ് പ്രതിവാര അസൈൻമെന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് 25 ശതമാനവും അവസാനഘട്ട പ്രധാന പരീക്ഷയിൽ നിന്ന് 75 ശതമാനവും മാർക്ക് നേടുവാൻ സാധിക്കും പ്രധാന പരീക്ഷയ്ക്കുള്ള മിക്ക ചോദ്യങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളവയായിരിക്കും ആയതിനാൽ ഗവേഷണ പ്രബന്ധങ്ങൾ മറക്കാതെ വായിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന് സാധ്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ രീതി പിന്തുടരുവാൻ പ്രയാസമായേക്കും പഠനത്തിന് ആവശ്യമായ പ്രബന്ധങ്ങളിൽ സിംഹഭാഗവും pubmed com മിൽ പ്രസിദ്ധീകരിച്ചവയായതിനാൽ നിങ്ങൾക്ക് മേല്പറഞ്ഞ സൈറ്റിൽ നിന്നും ഇവ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ഓരോ ലെക്ച്ചറിന്റെ അവസാനത്തിലും ഞാൻ നിങ്ങൾക്ക് നിയതമായ റീഡിങ് അസൈന്മെന്റുകൾ നൽകുന്നതായിരിക്കും ഇത് കൃത്യമായി പിന്തുടരേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ലലോ വരും ലെക്ച്ചറുകളിൽ മേല്പറഞ്ഞ മെക്കാനോബയോളജി എന്ന കോഴ്സിന്റെ വിവിധ തലങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു